സെൽ കൾച്ചർ ടെക്നോളജി ലെക്ചർ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ എട്ടാമത്തെ ആഴ്ചയിലാണ് അതായത് അവസാനത്തെ ആഴ്ച അതിനാൽ ഈ ആഴ്ച 20 21 മിനിറ്റ് വരുന്ന ചെറിയ മൊഡ്യൂളുകൾ ആയിട്ടാണ് ഞാൻ രൂപകല്പന ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചയിലെ 5 ക്ലാസ്സുകൾക്ക് പുറമേ ഞാൻ വേറെ കുറച്ച് മൊഡ്യൂളുകളും ചേർക്കുന്നുണ്ട് ആ ക്ലാസുകളിലൂടെ ഇപ്പോൾ നിലവിലുള്ള അല്ലെങ്കിൽ ലോകത്തിൻറെ പല ഭാഗങ്ങളിലും പിന്തുടരുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളെ കുറിച്ച് അതുമല്ലെങ്കിൽ അടുത്ത 20 25 വർഷത്തിനുള്ളിൽ സെൽ കൾച്ചറിന്റെ തന്നെ മുഖം മാറ്റിമറിക്കാവുന്നതരത്തിൽ ഉയർന്നുവരുന്ന പുതിയ രീതികളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെല്ലാവരും ഇതിൽ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളുടെ തലമുറ ഇത്തരം സാങ്കേതികവിദ്യകൾ എത്രത്തോളം സൌകര്യപ്രദമാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനാൽ ആദ്യത്തെ ലെക്ചറിൽ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ അവസാനിപ്പിച്ചിടത്തുനിന്ന് തുടങ്ങാം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അവസാനത്തെ ക്ലാസിൽ പലതരം പേശി കോശങ്ങളെ വളർത്തുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അസ്ഥിപേശി കോശങ്ങൾ ഹൃദയപേശി സ്ലൈഡിങ് ഫിലമെൻറ് തിയറിയുടെ പ്രവർത്തനം പേശികളുടെ സങ്കോചം തുടങ്ങി എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ സംസാരിച്ചു അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുവെച്ചാൽ നാഡീകോശം അസ്ഥിപേശി ഹൃദയപേശി മിനുസമാർന്ന പേശി ചില എൻഡോക്രൈൻ കോശങ്ങൾ തുടങ്ങി ഇത്തരത്തിലുള്ള വിവിധ കോശങ്ങൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മാത്രമല്ല മെക്കാനിക്കൽ ആക്ടിവിറ്റി അഥവാ യാന്ത്രിക പ്രവർത്തനവും കാണിക്കും പ്രത്യേകിച്ചും കാർഡിയാക് മയോ സൈറ്റ് അസ്ഥി പേശികൾ എന്നിവ അസ്ഥി പേശികളുടെ രൂപപ്പെടലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിരുന്നു ചെറിയ മയോ ട്യൂബുകൾ രൂപപ്പെടുന്നതും അവ മയോ ഫൈബർ ആയി മാറുന്നതും ധാരാളം മയോ ഫൈബറുകൾ കൂടിച്ചേർന്ന് പേശിയായി മാറുന്നതിനെ കുറിച്ചുമെല്ലാം നമ്മൾ പറഞ്ഞതാണ് കോശങ്ങൾ സങ്കോചിക്കുന്നുണ്ടെങ്കിൽ അതായത് സങ്കോചം എന്നത് ഒരു യാന്ത്രിക പ്രവർത്തിയാണ് ഏതെങ്കിലും തരത്തിലുള്ള യാന്ത്രിക പ്രവർത്തി ഒരു ശക്തി സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ആ ശക്തിയെ അടിസ്ഥാനമാക്കി ഒരാൾക്ക് ഏതുതരത്തിലുള്ള പേശി ആണ് അത് എന്ന് നിർണയിക്കാൻ സാധിക്കുന്നു അതിൻറെ മോളിക്കുലാർ വശം നോക്കാം പേശികളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പേശികൾ രണ്ടുതരത്തിലുള്ള സ്ട്രക്ച്ചറൽ പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മായോസിൻ ആക്ടിൻ എന്നിവകൊണ്ട് സ്ലൈഡിങ് ഫിലമെൻറ് ചലനസമയത്ത് ആക്ടിൻ മായോസിൻ ചെയിനുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ആയി സ്ലൈഡ് ചെയ്യുന്നു ഞാൻ മുന്നേ പറഞ്ഞിരുന്നു സ്ലൈഡിങ് ഫിലമെൻറ് തിയറിയെ കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും പാഠപുസ്തകത്തിലോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താലോ വ്യക്തമായി അറിയാൻ സാധിക്കുന്നതാണ് അതിനാൽ ആക്ടിൻ മായോസിൻ എന്നിവയുടെ ഒന്നിനുമുകളിൽ മറ്റൊന്നായുള്ള സ്ലൈഡിങ് ചലനം പേശിയുടെ പ്രവർത്തനമാണ് എന്താണ് അതു കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് എത്ര വേഗതയിലാണ് ആക്ടിൻ മായോസിൻ സ്ലൈഡിങ് ചലനം നടക്കുന്നത് എന്നത് പേശിയെ ആശ്രയിച്ചിരിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ വേഗതയാണ് പേശി ഏത് നിരക്കിലാണ് സങ്കോചിക്കാൻ പോകുന്നതെന്ന് നിർണയിക്കുന്നത് അപ്പോൾ സങ്കോചത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ ചലനത്തിൻറെ വേഗതയെ കുറിച്ച് പറഞ്ഞു ആ മുഴുവൻ പ്രക്രിയയിൽ പേശി സൃഷ്ടിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് ആ ശക്തിയെ കുറിച്ച് അപ്പോൾ നമ്മൾ എട്ടാമത്തെ ആഴ്ചയിലെ ഒന്നാമത്തെ ലെക്ചറിൽ ആണ് W8 L1 അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേശികൾ സൃഷ്ടിക്കുന്ന ശക്തിയെ അളക്കുന്നതിനെക്കുറിച്ചാണ് അത് അസ്ഥിപേശി ആകാം ഹൃദയപേശി ആകാം അല്ലെങ്കിൽ അസ്ഥി ഹൃദയ മിനുസ പേശിയും ആകാം പേശികൾ സൃഷ്ടിക്കുന്ന ശക്തി അളക്കുന്നത് ഒരു ഇൻവിട്രോ സെൽ കൾച്ചർ രീതിയാണ് അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാൻ മുന്നേ പറഞ്ഞിരുന്നതുപോലെ അത് അസ്ഥിപേശി ആണെങ്കിൽ അതുമല്ല ഹൃദയപേശി ആണെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ അവ ആക്ടിൻ മായോസിൻ ഫിലമെന്റുകളാൽ ആണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ആക്ടിൻ മായോസിൻ ഫിലമെന്റുകൾ ഒന്നിനുമുകളിലൊന്നായി സ്ലൈഡ് ചെയ്യുന്നു അപ്പോൾ ആക്റ്റിനും മയോസിനും ഇത്തരത്തിൽ യോജിക്കപ്പെട്ടിട്ടുള്ള മയോസിൻ ഹെഡ്സ് അവിടെ ഉണ്ട് അതുപോലെ ഇവിടെ ആക്റ്റിനും മയോസിനും നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ആക്റ്റിനും മയോസിനും ആണ് ആക്ടിൻ മായോസിൻ ഫിലമെന്റുകൾക്ക് ഇടയിലുള്ള സ്ലൈഡിങ് ചലനം സാധ്യമാക്കുന്നത് ആക്ടിൻ മായോസിൻ ഫിലമെന്റുകളുടെ സ്ലൈഡിങ് ചലനം നമ്മൾ നേരത്തെ പറഞ്ഞ സങ്കോചം സാധ്യമാകുന്നു ഈ സങ്കോചത്തിന് ഒരു ശക്തിയുണ്ട് ഈ ശക്തി ഹൃദയപേശികൾക്ക് വ്യത്യസ്തമായിരിക്കും ഈ ശക്തി അസ്ഥി പേശികൾക്ക് വ്യത്യസ്തമായിരിക്കും ഈ ശക്തിയെ ഞാൻ fc എന്ന് വിളിക്കാം അസ്ഥിപേശിയെ skm എന്നും ഹൃദയപേശിയെ cm എന്നും ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യമിതാണ് ഈ രണ്ടു പേശികൾ സൃഷ്ടിക്കുന്ന ശക്തികളെ ഇൻവിട്രോ സെൽ കൾച്ചർ സംവിധാനത്തിൽ നിങ്ങൾ എങ്ങനെ നിർണയിക്കും എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിനു മുൻപ് അതിൻറെ ആവശ്യകതയെക്കുറിച്ച് പറയേണ്ടതുണ്ട് ഉദാഹരണത്തിന് പേശി ഡിസ്ട്രോഫിക്കായി മരുന്ന് അല്ലെങ്കിൽ മയോട്യൂബുകളുടെ ഫിനോടൈപ്പുകൾ സ്ക്രീൻ ചെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേശികളുമായി ബന്ധപ്പെട്ട തകരാറുകൾ അല്ലെങ്കിൽ മറ്റ് പേശി വൈകല്യങ്ങൾ നമ്മുടെ കയ്യിൽ സെൽ കൾച്ചർ ടൂൾ ഉള്ളതുപോലെ ഒരു ഉപകരണം അയാൾക്ക് ആവശ്യമാണ് കോശങ്ങൾ വളരുന്നുണ്ടോ ഇല്ലയോ എങ്ങിനെ വളരുന്നു തുടങ്ങിയ കാര്യങ്ങൾ സെൽ കൾച്ചർ ടൂൾ കാണിച്ചുതരും ഈ രീതിയിൽ ശക്തി അളക്കാൻ കഴിയുന്ന ഒരു ഉപകരണം ആവശ്യമാണ് എങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ പലതരത്തിലുള്ള മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള എലികൾ ഉണ്ട് നിങ്ങൾക്ക് അവയെ ഉപയോഗപ്പെടുത്താം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനാകുന്നത് ഇവ മയോട്യൂബുകൾ വളർത്താൻ ഉപയോഗിക്കാം എന്നതാണ് അസ്ഥിപേശിയുടെ കാര്യത്തിൽ പേശിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് മയോട്യൂബുകൾ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവ മയോ ട്യൂബ്സ് ആണ് ഇവയെ ഒരു ഡിഷിൽ വളർത്തിയെടുക്കാം നിങ്ങൾക്ക് ചില മരുന്നുകൾ സ്ക്രീൻ ചെയ്യണമെന്ന് ഇരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ പക്കൽ ഈ കൾച്ചർ ഉണ്ട് ഇതിൽ പലതരം മരുന്നുകൾ ചേർത്തശേഷം പേശികളുടെ സങ്കോചം അളക്കാം ഇത്തരത്തിൽ പേശികൾ സങ്കോചിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ശക്തി അളക്കുന്നത് വഴി മരുന്നുകളുടെ കഴിവ് മനസ്സിലാക്കാനാവും ഇപ്പോൾ ആഗോളതലത്തിൽ വ്യത്യസ്തമായ സാങ്കേതികവിദ്യകൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഒരു സാങ്കേതികവിദ്യയെ കുറിച്ചാണ് നിങ്ങളോട് പങ്കിടാൻ പോകുന്നത് കാരണം ആ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിന്റെ അവിഭാജ്യഭാഗമായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ സാങ്കേതിക വിദ്യയുടെ പേരാണ് കാന്റിലിവറുകളുടെ മൈക്രോ ഫാബ്രിക്കേഷൻ പേശികൾ സൃഷ്ടിക്കുന്ന ശക്തി അളക്കുന്നതിന് കാന്റിലിവറുകൾ ഉപയോഗിക്കാം ഇത് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ അഥവാ MEMS ന്റെ കീഴിലാണ് വരുന്നത് ഇപ്പോൾ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത് നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും ബയോ MEMS നെ കുറിച്ച് കേട്ടിരിക്കും M എന്നാൽ മൈക്രോ E സൂചിപ്പിക്കുന്നത് ഇലക്ട്രോ M എന്നാൽ മെക്കാനോ അഥവാ മെക്കാനിക്കൽ S എന്നാൽ സിസ്റ്റംസ് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് ബയോ ഈ MEMS ൽ നിങ്ങൾ ഒരു ബയോളജിക്കൽ ഘടകം സമന്വയിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മൈക്രോ സിസ്റ്റത്തിലെ എല്ലാ തരത്തിലുള്ള മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്രതിഭാസങ്ങൾ അളക്കാൻ സാധിക്കുന്നു അത് ഒരു കോശം ആണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് 2 മുതൽ 10 അതല്ലെങ്കിൽ100 മുതൽ 500 മൈക്രോൺ എന്ന അളവിനെ കുറിച്ചായിരിക്കും അപ്പോൾ ഇതെല്ലാം മൈക്രോസിസ്റ്റംസ് ആണ് അതിലും ചെറിയ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ NEMS ലേക്ക് പോകേണ്ടിവരും നാനോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് അതിനാൽ നിങ്ങൾ നിർമ്മിക്കുന്ന ഈ ഘടനകൾ വളരെ ചെറിയ ഘടനകൾ ആണ് ഈ ഉപകരണങ്ങളിൽ ആണ് നിങ്ങൾ ഒരു ബയോളജിക്കൽ ഘടകത്തെ സമന്വയിപ്പിക്കാൻ പോകുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ മേഖലയിലാണ് അടുത്ത തലമുറയിലെ സെൽ കൾച്ചർ മുന്നേറാൻ പോകുന്നത് അവസാനത്തെ കുറച്ച് ലെക്ചറുകളിൽ ഇത്തരത്തിലുള്ള സാങ്കേതികവിദ്യകളെ കുറിച്ച് ആയിരിക്കും ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് മൈക്രോ ഫാബ്രിക്കേഷൻ ലിത്തോഗ്രാഫി മൈക്രോ ചാനൽ ടെക്നോളജി ഹിപ്പോകാമ്പൽ ന്യൂറോൺ മൈക്രോ ചാനൽ ടെക്നോളജി നൂതന ഇലക്ട്രിക്കൽ സിസ്റ്റംസ് എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കും സെൽ കൾച്ചറിൽ ഉപയോഗിക്കുന്ന പ്ലാനർ മൈക്രോ ഇലക്ട്രോഡ് അറേ ഫീൽഡ് ഇഫക്ട് ട്രാൻസിസ്റ്ററുകൾ അഥവാ f e t s എന്നിവയെകുറിച്ചും അവിടിവിടെയായി കുറച്ചെല്ലാം പറയും ഇതിനെക്കുറിച്ച് എല്ലാം പ്രതിപാദിക്കുന്ന കുറച്ച് ലിറ്ററേച്ചർ ഞാൻ നിങ്ങൾക്ക് നൽകാം അപ്പോൾ നമുക്ക് മൈക്രോ ഫാബ്രിക്കേഷൻ വെച്ച് ആരംഭിക്കാം എന്താണ് മൈക്രോ ഫാബ്രിക്കേഷൻ ടെക്നോളജി എന്തുകൊണ്ടാണ് അത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് മൈക്രോ കാന്റിലിവർ സിസ്റ്റങ്ങൾ പ്രത്യേകിച്ച് വാട്ടർ കാന്റിലിവറുകളെ കുറിച്ച് പറഞ്ഞു എല്ലാവരും AFM നെ കുറിച്ച് കേട്ടിരിക്കും ശരിയല്ലേ അതിനാൽ കാന്റിലിവറുകൾ ഇതുപോലുള്ള ചില ഘടനകളാണ് ഇടയിൽ തൂണുകൾ ഇല്ലാത്ത തൂക്കുപാലങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും കാന്റിലിവർ തത്വം അനുസരിച്ചാണ് അവ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഹൌറ പാലത്തെക്കുറിച്ച് കേട്ടിരിക്കും പഴയ ഹൌറ പാലം ഒരു പിന്തുണ സംവിധാനവും ഇല്ലാത്ത പാലം ആ പാലങ്ങൾ കാന്റിലിവർ തത്വം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ കാന്റിലിവർ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് നീന്തൽ കുളങ്ങളിൽ ഉള്ള ഡൈവിംഗ് ബോർഡുകൾ നിങ്ങൾ കണ്ടിരിക്കും ശരിയല്ലേ കാന്റിലിവർ അതുമായി അടിസ്ഥാനപരമായി വളരെ സാമ്യത പുലർത്തുന്നു നിങ്ങൾക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള ഡൈവിംഗ് ബോർഡുകളിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നു ഇത്തരത്തിൽ അവ ചലിക്കുന്നു ഒരു നീന്തൽക്കുളത്തിന്റെ ഡൈവിംഗ് ബോർഡ് സങ്കൽപ്പിക്കുക അപ്പോൾ ഇതാണ് നീന്തൽകുളം എന്ന് കരുതുക ഇവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു വ്യക്തി ഇവിടെ ഇത്തരത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കണം ഇത് ഇതുപോലെ മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നു എന്നിട്ട് ഈ വ്യക്തി വെള്ളത്തിലേക്ക് ചാടുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ വ്യക്തി നിന്നിരുന്ന ഇത്തരത്തിൽ ഘടിപ്പിച്ചുവെച്ചിരിക്കുന്ന പലകയെ കാന്റിലിവർ എന്നുവിളിക്കാം ഇനി ഞാൻ ഈ കാന്റിലിവറിന്റെ വലുപ്പം മൈക്രോൺ തലത്തിലേക്ക് കുറയ്ക്കുന്നതായി ചിന്തിച്ചുനോക്കൂ ഞാൻ അതിൻറെ വലിപ്പം 200 മൈക്രോൺ അല്ലെങ്കിൽ 500 മൈക്രോൺ അതുമല്ലെങ്കിൽ 100 മൈക്രോൺ ആക്കി കുറച്ചു എന്ന് കരുതുക ഇത്തരത്തിൽ കാന്റിലിവർ വികസിപ്പിച്ചെടുക്കുമ്പോൾ എൻറെ ആവശ്യമനുസരിച്ച് എനിക്ക് 50 മൈക്രോൺ അല്ലെങ്കിൽ 20 മൈക്രോൺ വരെയൊക്കെ പോകാവുന്നതാണ് അതിനാൽ ഇവയെ ചെറിയ മെക്കാനിക്കൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ മൈക്രോ കാന്റിലിവർ ഉപകരണങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യം ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എങ്ങിനെ വികസിപ്പിച്ചെടുക്കും എന്നതാണ് അതിനായി നിങ്ങൾക്ക് ഒന്നിലധികം മാർഗ്ഗങ്ങളുണ്ട് ഉദാഹരണത്തിന് അതിൽ ഒരു വഴി ഞങ്ങൾ ഉപയോഗിച്ച ഈ രീതിയാണ് ഞങ്ങൾ ഉപയോഗിച്ച പോലെ ഇത്തരത്തിലുള്ള ഒരു സിലിക്കൺ ബ്ലോക്ക് ഘടന നിങ്ങൾ എടുക്കുക സിലിക്കൺ ഞാൻ ഒരു ഉദാഹരണമായി പറയുന്നതാണ് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇത്തരത്തിൽ പാറ്റേൺ ഉള്ള ഒരു മാസ്ക് എടുക്കുക ഈ മാസ്ക് ഇവിടെ വെച്ചശേഷം ലേസർ അല്ലെങ്കിൽ മറ്റ് എച്ചിംഗ് ടെക്നിക്കുകൾ ഈ ഉപരിതലത്തിൽ ഉപയോഗിക്കാം ഈ രീതിയിൽ തുടർച്ചയായി ഉപരിതലത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒന്നായിരിക്കും ഉപരിതലത്തിൽനിന്ന് രൂപപ്പെടുത്തിയെടുത്ത ഇത്തരത്തിലുള്ള ഒരു നിശ്ചിത ഡെപ്ത് പ്രൊഫൈൽ ഉള്ള ഒരു കാന്റിലിവർ നിര തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡെപ്ത് ഘടകം ഉണ്ട് അത് ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് ഡെപ്ത് ആ ഡെപ്ത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വ്യത്യാസപ്പെടാം അത് 1000 മൈക്രോൺ ആകാം അതു നിങ്ങൾക്ക് എല്ലായ്പോഴും വ്യത്യാസപ്പെടുത്താം ഇത്രയും പറഞ്ഞു കൊണ്ട് ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ ഇതിൽ ടിഷ്യു കൂടി ഉൾപ്പെടുത്തി ഈ സിസ്റ്റത്തിന്റെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാം